നമ്മുക് ആറാമത്തെ ആഴ്ചയിലെ അഞ്ചാം ക്ലാസ് ആരംഭിക്കാം അവസാന ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷനെ പരിചയപ്പെടുതുവേം അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരികുവേം ചെയ്തു നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയാൽ അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോണിലെ മിക്ക വർക്കുകളും 1995 മുതൽ 2000ന് ഉള്ളിൽ നേടിയതാണെന്ന് മനസ്സിലാകാനാക്കും 2000ത്തിനും 2003നും ഇടയിൽ സുഷുമ്നാ നാഡി ന്യൂറോണുകൾക്കായാണ് ഈ സാങ്കേതികവിദ്യകളിൽ ഭൂരിഭാഗവും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തുടർന്ന് 1980 കളിൽ ഭ്രൂണ മോട്ടോർ ന്യൂറോൺ വേർതിരിക്കലിനായി ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗിനെ ഉപയോഗിച്ചതിനെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവിടെയും യുക്തി സമാനമായിരുന്നു കാരണം ഭ്രൂണ മോട്ടോർ ന്യൂറോണുകളുടെ സുഷുമ്നാ നാഡി നോക്കുകയാണെങ്കിൽ അവിടെ കോശങ്ങൾ വേർതിരിക്കുന്ന രീതി നോക്കിയാൽ സുഷുമ്നാ നാഡി ഇതുപോലെയാണ് ഭ്രൂണത്തിലും അടൽറ്റിലും അതിനാൽ മുകളിൽ നിന്ന് മൃഗത്തെ നോക്കുമ്പോൾ നിങ്ങൾക് ഒരു ഡോർസൽ കാഴ്ച ലഭിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഈ മൃഗത്തെ മുകളിൽ നിന്ന് നോക്കുന്നു ഇത് നിങ്ങൾക് ഒരു ഡോർസൽ കാഴ്ച ആണ് നൽകുന്നത് നിങ്ങൾ തായെ നിന്ന് നോക്കിയാൽ അത് നിങ്ങൾക്ക് ഒരു വെൻട്രൽ കാഴ്ച നൽകും ഇനി നിങ്ങൾ ഈ മൃഗത്തിന്റെ സുഷുമ്നാ നാഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഇതുപോലെയാരിക്കും ഉദാഹരണത്തിന് ഇത് ഒരു മനുഷ്യനാണ് അതിനാൽ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ സുഷുമ്നാ നാഡി നോക്കിയാൽ അതായത് വിസെറ തുറന്ന് സുഷുമ്നാ നാഡി നോക്കിയാൽ നിങ്ങൾ വെൻട്രൽ ഭാഗത്ത് നിന്നാണ് നോക്കുന്നത് പിന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഡോർസൽ വശത്തു നിന്നാണ് നോക്കുന്നത് ഈ ആശയം മനസ്സിൽ വയ്ക്കുക സുഷുമ്നാ നാഡി ഇത്തരത്തിലുള്ളതാണ് എന്നത് വളരെ രസകരമാണ് അതായത് ഒരു പേപ്പർ മടക്കുന്നത് പോലെയാണ് ഈ വര വരച്ചിടത്തെല്ലാം നിങ്ങൾ മടക്കുക അതിനാൽ നിങ്ങൾക്ക് ഇതുപോലൊന്നാണ് ലഭിക്കുന്നത് മടക്കിയ ശേഷം നമ്മുക് ഇതുപോലൊന്നാവും ലഭിക്കുക അതിനാൽ ഇതാണ് ഒരു തരം കേന്ദ്ര ഭാഗം ഇത് ഈ വശമാണ് ഇത് മറുവശമാണ് ഇപ്പോൾ ഈ രണ്ട് വശങ്ങളും പുറത്തേക്കാണ് മടക്കുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് വെൻട്രൽ വശമാണെങ്കിൽ ഇങ്ങനെ വെൻട്രൽ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്നെ നോക്കുകയാനേൽ ഇതുപോലാണ് മടക്കേണ്ടതു അതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്റെ കൈകൾ ഇരുവശത്തുമായി വെച്ചിരിക്കുന്നത് നോക്കിയാൽ അവയാണ് പച്ച അതായത് എന്റെ രണ്ട് കൈകളും ഉള്ള ഭാഗം ഇതാവും ചുവന്ന ഭാഗം ഇപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചുതരാം ഇതാണ് ചുവന്ന ഭാഗം എന്റെ ഇരു കൈകളും ഉള്ള ഈ ഭാഗമാണ് നീല ഷേഡുള്ള പ്രദേശം ഇത് ഇതുപോലെ മടക്കുന്നു അതിനാൽ ഈ നീലനിറത്തിലുള്ള ഭാഗത്തിന് ഇതുപോലുള്ള ഘടനയാണ് അതായത് ഇതുപോലെ വളവുകൾ ഉള്ളതായി തോന്നുന്ന ഘടന ഞാൻ ഇപ്പോൾ ഷേഡിംഗ് ചെയ്യുന്നതാണ് നീല ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് മോട്ടോർ ന്യൂറോണുകൾ കൾച്ചർ ചെയ്യണമെന്നുടെങ്കിൽ ഈ സുഷുമ്നാ നാഡി മോട്ടോർ ന്യൂറോണുകളുടെ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനാൽ സുഷുമ്നാ നാഡി മോട്ടോർ ന്യൂറോണുകളുടെ സ്ഥാനം ഇവിടെയാണ് ഇവിടം വെൻട്രൽ ഹോൺ എന്ന് വിളിക്കപ്പെടുന്നു എന്നാൽ ഇപ്പോൾ ഈ സെല്ലുകൾക്കൊപ്പം മോട്ടോർ ന്യൂറോണുകളും ഉണ്ട് മോട്ടോർ ന്യൂറോണുകൾ രണ്ട് തരമുണ്ട് ആൽഫ അല്ലെങ്കിൽ ഗാമ എന്നാൽ ഇവ ഇങ്ങനെ വേർതിരിക്കുന്നത് നേരത്തെ അതായത് ഭ്രൂണ ഘട്ടത്തിൽ സംഭവികില്ല പക്ഷേ ഇത് അടൽറ്റിൽ സംഭവിക്കും ആൽഫയാണ് ഏറ്റവും വലുത് ഗാമ ചെറുതും അതായത് ഇവ ചെറിയ വലുപ്പമുള്ളവ ഇവ വലിയ വലുപ്പമുള്ളവയും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൽഫകളുണ്ട് ഇവിടായി ഗാമയുമുണ്ട് ഇനി ഇത്കൂടാതെ നിങ്ങൾക്ക് ഒളിഗോസ് റീസൈഡിങ് മൈക്രോഗ്ലിയ ആസ്ട്രോസൈറ്റുകൾ ഒലിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്നിങ്ങനെ മറ്റ് സെൽ തരങ്ങളും ഇവിടെയുണ്ട് പിന്നെ സെൻട്രൽ കനാലിലും ചിലത് ഉണ്ട് സെൻട്രൽ കനാൽ എന്നാൽ അത് ഇതുപോലുള്ള ഒരു സ്ഥലമാണ് അതായത് മധ്യഭാഗത്തായി ഇവിടെ ധാരാളം സ്റ്റെം സെല്ലുകൾ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ വീണ്ടും അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയും എന്നാൽ ഇവിടെ അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോൺ അല്ല ഇപ്പോൾ ഇത് ഭ്രൂണ മോട്ടോർ ന്യൂറോൺ കൾച്ചർ ആയിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആൽഫ മോട്ടോർ ന്യൂറോൺ M N ഉണ്ട് ഗാമ മോട്ടോർ ന്യൂറോൺ അതായത് വളരെ ചെറിയ ന്യൂറോണുകൾ ഉണ്ട് നിങ്ങൾക്ക് ഒളിഗോസ് ഉണ്ട് നിങ്ങൾക്ക് റീസൈഡിങ് മൈക്രോഗ്ലിയ ഉണ്ട് നിങ്ങൾക്ക് അസ്ട്രോസൈറ്റ്സ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് സെല്ലുകളുണ്ട് എന്നാൽ ഇവിടെ പിന്തുടരുന്ന സാങ്കേതികത ഒന്നുതന്നെയാണ് ഇതാണ് ആദ്യത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നത് ഈ പേപ്പർ എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അത് നൽകുന്നതായിരിക്കും ഇവിടെ അവർ ഒരു ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളം ഉണ്ടാക്കി ശേഷം ഇതിൽ അവർ ഈ സെല്ലുകളെ വേർതിരിചെടുത്തു എന്നാൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഭ്രൂണം എടുത്ത് ഈ ഭാഗം മാത്രം വേർപെടുത്തി എടുക്കുക വെൻട്രൽ ഹോൺ എന്ന് വിളിക്കുന്ന ഈ ഭാഗം നിങ്ങൾ വേർപെടുത്തി കഴിഞ്ഞാൽ വെൻട്രൽ ഹോൺ ഭാഗത്തുള്ള കോശങ്ങളെ വേർപെടുത്തുക ശേഷം ഈ സെല്ലുകളെ ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളം ഉപയോഗിച്ച് വേർതിരിക്കുക ഇങ്ങനെ ഈ സെല്ലുകളെ വേർതിരിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നേടാൻ പോകുന്നത് എന്തെന്നാൽ നിങ്ങൾ ശരിക്കും സമർത്ഥനാണെങ്കിൽ ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളത്തിൽ ഏറ്റവും വലിയ സെല്ലുകളായ മോട്ടോർ ന്യൂറോണുൾ ഇതുപോലെ വളരെ മനോഹരമായ ഒരു ചെറിയ നേർത്ത പാളി സൃഷ്ടിക്കും ഇതായിരിക്കും ശുദ്ധമായ മോട്ടോർ ന്യൂറോണുകൾ എന്റെ ഓര്മ ശെരിയാണെങ്കിൽ ഇത് സുക്രോസ്സും നൈകോഡെൻസും ഉപയോഗിചാണ് ചെയ്തത് പിന്നെ സാന്ദ്രത അളക്കുവാനായി പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളംസ് നിർമ്മിക്കാൻ ഏത് തരം ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനായി ഞാൻ ആ പേപ്പറുകൾ നിങ്ങൾക്ക് തരാം ഭ്രൂണാവസ്ഥയിലുള്ള മോട്ടോർ ന്യൂറോണുകളായ ഈ ശുദ്ധമായ മോട്ടോർ ന്യൂറോണുകളാണ് ഭ്രൂണവ്യവസ്ഥയിൽ നിന്ന് മോട്ടോർ ന്യൂറോൺ ഡിസോർഡേഴ്സ് പഠിക്കുന്നതിനായുള്ള ഉറവിടം ഇവിടെയും പ്രക്രിയ ഡെന്സിറ്റി ഗ്രേഡിയന്റ് ആണ് എന്നാൽ ആ പ്രക്രിയയിൽ ഒരു മുന്നേറ്റമുണ്ടായിട്ടുണ്ട് ഇതാണ് ഞാൻ ഇപ്പോൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് അതായത് കോശങ്ങളുടെ ഇമ്യൂണോ സെപ്പറേഷൻ ആദ്യം ഇവിടുത്തെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു സെൽ അതിന്റെ ഉപരിതലത്തിൽ എല്ലാത്തരം റിസപ്റ്ററുകളും പ്രകടിപ്പിക്കുന്ന ഒരു ചലനാത്മക സംവിധാനമാണ് സെല്ലുകളെ തിരിച്ചറിയുന്നത് അവ പ്രകടിപ്പിക്കുന്ന റിസപ്റ്ററുകളുടെ തരത്തിനനുസരിച്ചാണ് ഉദാഹരണത്തിന് സെല്ലിന്റെ വികസന സമയത്ത് ഒരു പ്രത്യേക സമയത്ത് x അല്ലെങ്കിൽ y സെൽ അതിന്റെ ഉപരിതലത്തിൽ ഒരു നിർദ്ദിഷ്ട റിസപ്റ്റർ പ്രകടിപ്പിക്കും നിങ്ങൾക്ക് ഈ റിസപ്റ്ററിനെതിരെ ആന്റിബോഡികൾ വളർത്താൻ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ വ്യത്യസ്ത സെൽ തരങ്ങളുടെ ഒരു മിശ്രിതത്തിൽ നിന്നും നിങ്ങൾക്ക് ആ സെൽനെ നന്നായി വേർതിരിചെടുക്കാനാകും ഞാൻ ഇത് നിങ്ങൾക് വരച്ചുകാണിക്കാം അത് കൂടുതൽ അർത്ഥവത്താരിക്കും ഉദാഹരണത്തിന് എനിക്ക് ഇവിടെ ഒരേ വലുപ്പത്തിലുള്ള വ്യത്യസ്ത സെല്ലുകളുണ്ട് പക്ഷേ അവ വ്യത്യസ്ത തരത്തിലുള്ളവയാണെന്ന് എനിക്കറിയാം എങ്ങനെയാണ് ഞാൻ ഇവ വ്യത്യസ്ത സെല്ലുകളാണെന്ന് മനസിലാക്കിയത് ഈ സെല്ലുകൾക്ക് റിസപ്റ്ററുകൾ ഉണ്ടെന്ന് എനിക്കറിയാം ഇവിടെ ഞാൻ കളർ കോഡിംഗ് കാണിച്ചാൽ അത് കൂടുതൽ അർത്ഥമുണ്ടാക്കും ഇത് ബാഹ്യ റിസപ്റ്ററുകളാണ് അതിനാൽ ഇപ്പൊ നമ്മൾ പച്ച നിറമുള്ളതും നീല നിറമുള്ളതും കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സാഹചര്യം നൽകുന്നു അതായത് നിങ്ങൾ എനിക്ക് പച്ച ലേബൽ അല്ലെങ്കിൽ പച്ച സെല്ലുകൾ തരൂ എന്ന് ഈ പച്ച സെല്ലുകൾ മോട്ടോർ ന്യൂറോണുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രക്രിയയിൽ അഥവാ അവയുടെ വികസനത്തിൽ വളരെ സവിശേഷമായ ഒരു ഘട്ടമുണ്ടായിരിക്കും അതിനാൽ E 14 മോട്ടോർ ന്യൂറോൺ ഈ റിസപ്റ്ററിനെ പ്രകടിപ്പിക്കുന്നുവെന്ന് എനിക്കറിയാം എന്നാൽ E 16 അല്ലെങ്കിൽ E 17 ന് ശേഷം നമുക്ക് ഒരു മിക്സ് അപ്പ് മിക്സ് മാച്ച് സംഭവിക്കും പക്ഷേ ഈ മോട്ടോർ ന്യൂറോണുകൾ ഒരു റിസപ്റ്റർ മാത്രമായി പ്രകടിപ്പിക്കുന്ന ഒരു യൂണിക് മേഖലയാണ് ഇതെന്ന് എനിക്കറിയാമെങ്കിൽ ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല സെൽ കൾച്ചറിസ്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും പുരോഗതിയെക്കുറിച്ചും ഡെവെലപ്മെന്റൽ ബയോളജിയെക്കുറിച്ചും ഒരു ടാബ് സൂക്ഷിക്കണം ഇത് നിങ്ങൾക്കു ന്യായമായ വിധി പറയാൻ വളരെ സഹായകമായിരിക്കും അതിനാൽ E 14 ന് ചുറ്റും മോട്ടോർ ന്യൂറോണുകളുണ്ട് മിക്ക മോട്ടോർ ന്യൂറോൺ എക്സ്പ്രസുകളും വളരെ സവിശേഷമായ റിസപ്റ്ററുകളാണ് ഞാൻ പറയുന്നത് ഒരു കേസ് പഠനത്തിൽ ആളുകൾ മോട്ടോർ ന്യൂറോണുകളെ വേർതിരിക്കുന്നതിലേക്ക് കടന്നതെങ്ങനെയാണ് എന്ന കഥയാണ് അവർ ചെയ്തത് വളരെ രസകരമായിരുന്നു ഈ ഭാഗത്തിനെതിരായ ഒരു ആന്റിബോഡി ചില വ്യക്തികൾ നേരത്തെ വികസിപ്പിച്ചെടുത്തിരുന്നു അതാണ് ഞാൻ ഈ സർക്കിൾ ചെയ്യുന്നത് അതായത് x y z റിസപ്റ്ററിന്റെ എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയ്നിനെതിരായ ആന്റിബോഡി ഇപ്പോൾ ആരോ വളരെ മികച്ച ഒരു കാര്യം ചെയ്തു അവർ ചെയ്ത കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടും ഞാൻ നിങ്ങൾക്ക് ആ പേപ്പർ അയക്കാം അപ്പോൾ അവർ എന്താ ചെയ്തെന്ന് നീങ്ങൾക് മനസിലാകും അപ്പോൾ അവർ എന്താണ് ചെയ്തതെന്നാൽ അവർക് ഈ ആന്റിബോഡി അറിയാം അതിനാൽ അവർ ഈ ആന്റിബോഡി ഒരു ഡിഷിൽ എടുത്തു ഇവിടെ ഞാൻ ഈ ആന്റിബോഡിയെ ഈ നിറം ഉപയോഗികിച്ച് ലേബൽ ചെയാം ശേഷം അവർ ഈ ഡിഷിനെ ആന്റിബോഡി ഉപയോഗിച്ച് കോട്ട് ചെയ്തു ഇപ്പോൾ ഈ ഡിഷ് ആന്റിബോഡിയാൽ കോട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ സെല്ലിന്റെ മിശ്രിതം എടുത്ത് ഇതിനു മുകളിലിട്ട് ഉരുട്ടുന്നു അതിനാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഈ ആന്റിബോഡിയുടെ റിസപ്റ്ററുകൾ ഉള്ള സെല്ലുകൾ അവയുമായി ബന്ധിപ്പിക്കും മറ്റ് സെല്ലുകളായ ചുവന്ന സെല്ലുകൾ നീല സെല്ലുകൾ പിങ്ക് സെല്ലുകൾ ഇവയെല്ലാം പുറത്തേക്ക് പോകും കാരണം അവയ്ക്ക് അറ്റാച്ചുചെയ്യുന്നത്തിനായി ആന്റിബോഡികൾ ഇല്ല ഇതാണ് ഇമ്യൂണോ സെപ്പറേഷന്റെimmuno separation അടിസ്ഥാനം ഇത് വളരെ ലളിതമായ ഒരു ആശയമാണ് എന്നാൽ നിങ്ങൾക്ക് ഈ ആശയം മനസിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ വ്യത്യസ്ത നിറങ്ങളിൽ വരച്ചത് പക്ഷേ ഈ സെൽ തരം ഈ ആന്റിബോഡി പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം മോട്ടോർ ന്യൂറോൺ ബയോളജിയിൽ വളരെ മികച്ച നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫീൽഡ് പുരോഗമിക്കുന്ന രീതിയെ ശരിക്കും മാറ്റിയ അതുല്യമായ ഈ പേപ്പറുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതാരികും ഇവ വളരെ വിവേകപൂർണ്ണമായി നടന്ന സംഭവമാണ് അതായത് E14 മോട്ടോർ ന്യൂറോൺ ഒരു പ്രത്യേക എക്സ്ട്രാ സെല്ലുലാർ റിസപ്റ്ററിനെ പ്രകടിപ്പിക്കുന്നു ഇത് 1980 കളിൽ അല്ലെങ്കിൽ 80 മുമ്പ് മാന്യന്മാരായ ജോൺസണും സെൻറ്റോളി മിസ്സൌറിയും കണ്ടെത്തിയതാണ് എന്നാൽ ഇതിനും മുൻപായി ഒരു മാന്യൻ തികച്ചും വ്യത്യസ്തമായി അവരുമായി യാതൊരു ബന്ധവുമില്ലാതെ ആക്സസറി ഡൊമെയ്നിനെതിരെ ഒരു ആന്റിബോഡി വികസിപ്പിച്ചു പിന്നെ മൂന്നാമത്തെ വ്യക്തി വന്നു ഈ വ്യക്തിക് ഇവരെ രണ്ടുപേരെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നു ഇദ്ദേഹം എന്താണ് ചെയ്തതെന്നാൽ ആദ്യം ഇതുപോലൊരു ടെസ്റ്റ് ബിറ്റ് സൃഷ്ടിച്ചു ഇങ്ങനെ അവർക്ക് എല്ലാ മോട്ടോർ ന്യൂറോണുകളും ബാക്കിയുള്ളവയിൽ നിന്ന് വേർപെടുത്താൻ കഴിഞ്ഞു ഇത് വളരെ മികച്ച സാങ്കേതികതയിരുന്നു ഇനി നിങ്ങൾക് ഇവയെ നീക്കംചെയ്യുന്നതിന് മുൻപായി ഒരു സമ്പൂർണ്ണ ബൈൻഡിംഗ് ആവശ്യമാണ് ഇത് നീക്കംചെയ്യുന്നതിനായി രണ്ട് വഴികളുണ്ട് നിങ്ങൾക്ക് നീക്കംചെയ്യാൻ വളരെ കഠിനമായി ടാപ്പുചെയ്യാം എന്നാൽ ഈ അറ്റാച്മെൻറ് വളരെ മികച്ചതല്ല ഇത് നേടുന്നതിന് നിങ്ങൾക്ക് ഏകദേശം 30 മിനിറ്റ് ആവശ്യമാണ് അതുവരെ നിങ്ങൾ ഇവയെ ഡിഷിൽ വെക്കേണം 30 മിനിറ്റിനുശേഷം നിങ്ങൾ അവയെ ടാപ്പുചെയ്യുമ്പൊൾ ഈ സെല്ലുകൾ എല്ലാം വേർപെടും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ആന്റിബോഡീസ് ഇടുക അപ്പോൾ ഇവ മത്സരപരമായി റിസപ്റ്ററുകളുമായി ബന്ധിപ്പിക്കുകയും അങ്ങനെ ഈ സെല്ലുകളെ നീക്കം ചെയ്യ്തു ഒരു സെൻട്രിഫ്യൂജ് ട്യൂബിൽ ബഫർ മീഡിയത്തിൽ അവ ശേഖരിക്കാനും കഴിയും ശേഷം ഇവയെ സ്പിൻ ചെയ്താൽ ഒരു ശുദ്ധമായ പോപുലേഷൻ ഉണ്ടാകാൻ സാധിക്കും അതിനാൽ ഇതാണ് മോട്ടോർ ന്യൂറോണുകളുടെ ഇമ്യൂണോ സെപ്പറേഷന്റെ അടിസ്ഥാനം ഇപ്പോൾ നമ്മൾ ആരംഭിച്ച സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുക ആദ്യം ഇതിന് ശരിയായ വിഭജനം ആവശ്യമാണ് അതിനുശേഷം അതിന് എൻസൈമാറ്റിക് ഡിസോസിയേഷൻ ആവശ്യമാണ് അതിനുശേഷം ഇതിന് ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ആവശ്യമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഇമ്യൂണോ സെപ്പറേഷൻ ചെയാം ഈ വ്യത്യസ്ത സ്റ്റെപ്പുകളെല്ലാം ഉപയോഗിച്ച്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെല്ലിന്റെ വളരെ ശുദ്ധമായ ഒരു പോപുലേഷൻ ലഭിക്കും അതിനാൽ വളരെ രസകരമായ ഈ ഫീൽഡ് നിങ്ങൾ ഇങ്ങനെയാണ് നേടുന്നത് ഇപ്പോൾ നിങ്ങൾ അഞ്ചാം ആഴ്ചയിലെ അവസാന പ്രഭാഷണത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഏത് സാഹചര്യമാണ് എടുത്തതെന്ന് എന്ന് എനിക്കറിയില്ല ഒരു ലക്ഷ്യം നേടുന്നതിനായി ഈ വ്യത്യസ്ത സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം അവസാന പ്രഭാഷണത്തിൽ ഞാൻ വളരെ നിർണായകമായ ഒരു കാര്യം പരാമർശിചിരുന്നു അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും സമയത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഒന്നാണ് ഇതൊരു E 14 സുഷുമ്നാ നാഡിയല്ലെങ്കിൽ അതായത് E 15 വരുമ്പോ ഈ പാറ്റേൺ മാറും അതിനാൽ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ടെവേലോപ്മെന്റൽ ബയോളജി മനസിലാക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് വികസനം എങ്ങനെ നടക്കുന്നുവെന്ന് ഒരു ടാബ് സൂക്ഷിക്കണം എന്ന് അതുവഴി നിങ്ങൾക്ക് കൃത്യമായി ഈ ആന്റിബോഡിയെ അല്ലെങ്കിൽ ഈ പ്രത്യേക റിസപ്റ്ററുകളെ വേർതിരിക്കാനാകും ഇങ്ങനെ അത് ഉപയോഗിക്കാനും മുതലാക്കുവാനും നിങ്ങൾക് കഴിയും അതിനാൽ ഇങ്ങനെയാണ് ഇവയിൽ മിക്കതും സംഭവിക്കുന്നത് ഇതിനായി ഒരു പദ്ധതിയും ഇല്ല ആസൂത്രണവുമില്ല അതിനാൽ ഡെന്സിറ്റി ഗ്രേഡിയന്റ് ഇമ്യൂണോ സെപ്പറേഷൻ എന്നിവ കൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച നമ്മളുടെ ലക്ഷ്യം ന്യൂറോണുകളെക്കുറിച്ചുള്ള ഒരു പ്രത്യേക റഫറൻസിലൂടെ 2 D 3 D കൽച്ചറുകൾ മനസിലാകാം എന്നതാണ് ഈ ഫീൽഡ് മുഴുവനായും എങ്ങനെ മാറാൻപോകുന്നു എന്ന് മനസിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും